കഴിഞ്ഞ കുറച്ച് സെഷനുകളിൽ ഞങ്ങൾ പ്രൊജക്ഷനിനെ കുറിച്ചുള്ള കേസുകൾ ചർച്ച ചെയ്യുകയായിരുന്നു അതിൽ അടുത്ത വർഷത്തേക്കുള്ള ഡാറ്റ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മാർജിനൽ കോസ്റ്റിങ്ങിനെ കുറിച്ചുള്ള അറിവ് ഉപയോഗിക്കാം കഴിഞ്ഞ വർഷത്തെ വിവരങ്ങൾ നൽകുകയും പ്രൊജക്ഷനായി ലഭ്യമായ ഡാറ്റ ഉപയോഗിക്കുകയും ചെയ്യേണ്ടിവരുകയും ചെറിയ തീരുമാനം എടുക്കാൻ മാനേജ്മെന്റിനെ സഹായിക്കുകയും ചെയ്യേണ്ടി വരുന്ന സമാനമായ ഒരു കേസിലാണ് ഇന്ന് ഞങ്ങൾ തുടരാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രിന്റൌട്ട് ലഭിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദയവായി കേസ് ശ്രദ്ധാപൂർവ്വം വായിക്കുക ഡാറ്റയോ വിവരങ്ങളോ അവസാനം നൽകിയിട്ടില്ല അതിനിടയിൽ എവിടെയോ ആണ് നൽകിയിട്ടുള്ളത് അതിനാൽ നിങ്ങൾ അത് ശ്രദ്ധാപൂർവ്വം വായിക്കുകയും പ്രധാനപ്പെട്ട പോയിന്റ് അടിവരയിടുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് അപ്രസക്തമായ ധാരാളം ഡാറ്റ ഉണ്ടായിരിക്കാം എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില ഡാറ്റ ഉണ്ടാകും അതിനാൽ ആ പ്രത്യേക ഭാഗത്തിന് അടിവരയിടുക ഞാൻ മുന്നോട്ട് പോകും ഞാൻ എല്ലാ വരികളും വായിക്കില്ല പക്ഷേ നിങ്ങൾക്ക് എന്നോടൊപ്പം വായിക്കാം അതിനാൽ ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിമന്റ് ഉൽപ്പാദക രാജ്യമാണ് ഇന്ത്യ വിവിധ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ റോഡ് ശൃംഖലകൾ മുതലായവ വരാനിരിക്കുന്നു റോഡ് ശൃംഖലകൾ ഭവന പദ്ധതികൾ എന്നിവ വരുന്നു സർക്കാരിന്റെ പിന്തുണയുള്ള പല പദ്ധതികളും വരുന്നതിനാൽ കൂടുതൽ വിൽപ്പനയ്ക്ക് സാധ്യതയുണ്ട് മാത്രമല്ല വരും വർഷങ്ങളിൽ കൂടുതൽ വളർച്ച പ്രതീക്ഷിക്കുന്നു ഇത് ഇന്ത്യയിലെ മുൻനിര സിമന്റ് കമ്പനികളുടെ വളർച്ചയ്ക്കും കാരണമാകും വിൽപ്പനയിൽ പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് 2015 ൽ 10 15 ശതമാനമാണ് നൽകിയിരിക്കുന്ന ഡാറ്റ 2014 ലെ ഡാറ്റയാണെന്ന് ഓർക്കുക ഇപ്പോൾ ഞങ്ങൾ 2015 ലേക്കുള്ള പ്രൊജക്ഷൻ തയ്യാറാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാന ഭാഗം വായിക്കാം നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് 2015 മാർച്ചിൽ അവസാനിച്ച വർഷത്തിൽ ശുഭാപ്തിവിശ്വാസവും അശുഭാപ്തിവിശ്വാസവും പ്രകടമാക്കുന്ന പ്രോജെക്ഷൻ തയ്യാറാക്കാം വിൽപനച്ചെലവിന്റെ 20 ശതമാനം മാർജിൻ മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ സാധാരണവും ഇളവുള്ളതുമായ വിലയിൽ ഒരു യൂണിറ്റ് ചെലവ് കണക്കാക്കുക എന്ന് നിശ്ചയിക്കാം അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ മാർച്ച് 15 ന് അവസാനിച്ച വർഷത്തേക്കുള്ള പ്രൊജക്ഷൻ നടത്തണം ഇത് യഥാർത്ഥ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഒരു വർഷവും ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതിനാൽ ഈ പാരായിൽ മുമ്പത്തെ വിവരങ്ങളിൽ ഭൂരിഭാഗവും വിവരങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ നിരീക്ഷിക്കും എന്നാൽ അവസാനത്തെ രണ്ട് വരികൾ വളരെ പ്രധാനമാണ് ദയവായി ആ വരികൾക്ക് അടിവരയിടുക വിൽപ്പനയിൽ പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് 10 നും 15 നും ഇടയിൽ ആണ് അശുഭാപ്തിവിശ്വാസവും ശുഭാപ്തിവിശ്വാസവും ഉള്ള കണക്കുകൂട്ടലുകൾ നടത്താൻ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു അതിനാൽ അശുഭാപ്തി കണക്കുകൂട്ടൽ 10 ശുഭാപ്തി കണക്കുകൂട്ടൽ 15 ആണ് ദയവായി ഈ 10 15 ശതമാനം അടിവരയിടുക ഇപ്പോൾ വിൽപ്പന വിലയും 10 ശതമാനം ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ഈ 10 ശതമാനത്തിന് അടിവരയിടുക വീണ്ടും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉണ്ട് വായന തുടരുന്നതോടൊപ്പം പ്രധാന പോയിന്റിടുകൾ അടിവരയിടുക പ്രൊജക്ഷന് ഉപയോഗപ്രദമായ ചില വിവരങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നിടത്തെല്ലാം അടിവരയിടേണ്ടതുണ്ട് ഇപ്പോൾ കമ്പനി 1979 ൽ ജയ്പൂരിൽ ബാംഗൂർ കുടുംബം പ്രമോട്ട് ചെയ്തു സിമന്റ് കപ്പാസിറ്റി സ്ഥലങ്ങൾ പുതിയ പ്രോജക്ടുകൾ ഒന്നിലധികം ബ്രാൻഡുകൾ എന്നിവയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു ആകെ ജീവനക്കാരുടെ എണ്ണം 4698 ഇവിടെ ഒരു ചെറിയ ലൈൻ ഉണ്ട് ജീവനക്കാരുടെ ചെലവ് 15 ശതമാനം ആയി അത് നിങ്ങൾ അടിവരയിടേണ്ടതുണ്ട് നിങ്ങൾക്ക് അത് സ്വയം തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീയുടെ എച്ച്ആർ സംരംഭത്തിന് അടിവരയിടുന്ന സന്തോഷത്തിന്റെ അസാധാരണമായ തദ്ദേശീയ മാതൃക ഒരു നിർണായക പങ്ക് വഹിക്കുന്നു ഇന്ത്യൻ ധാർമ്മിക തത്വങ്ങൾ പിന്തുടരുന്ന കമ്പനിയാണ് അത് അതിനാൽ അത് വായിക്കുകയും പ്രൊജക്ഷനായി ഞങ്ങളെ സഹായിക്കുന്ന ചില വിവരങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്യുക ഇവിടെ നിങ്ങൾ ശ്രദ്ധാപൂർവം നോക്കുകയാണെങ്കിൽ ജീവനക്കാരുടെ ചെലവുകൾ ഒഴികെ അതിന്റെ പ്രവർത്തന ചെലവ് 10 മുതൽ 12 ശതമാനം വരെ വളരുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നു കാരണം ജീവനക്കാരുടെ ചെലവ് 15 ശതമാനം വർധിക്കുന്നുണ്ടെന്ന് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് കാരണം ശമ്പള വർദ്ധനവ് നൽകുന്നതിൽ അവർ ചെറിയ ഉദാരദയാണ് നൽകുന്നത് എന്നാൽ മറ്റ് ചെലവുകൾക്ക് അവർ 10 മുതൽ 12 ശതമാനം വരെ വർദ്ധനവ് നൽകുന്നു അതിനാൽ ദയവായി ഇത് ശ്രദ്ധിക്കുക ഇത് ഇപ്പോൾ അവസാനത്തെ ഒരു പാരാ ആയിരുന്നു ഈ വിവരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് 15 ആശാവഹവും അശുഭാപ്തിവിശ്വാസവും ഉള്ള പ്രൊജക്ഷൻ നടത്തേണ്ടി വരും അതിനാൽ ദയവായി നോർമൽ സിമന്റ് പ്രൈസും കൺസെഷണൽ പ്രൈസും കാണിക്കാനായി രണ്ടു കോളങ്ങൾ ഉണ്ടാക്കുക മാനേജ്മന്റ് വിൽപനച്ചെലവിൽ 20 ശതമാനം മാർജിൻ നല്കാൻ താൽപര്യപ്പെടുന്നത് കൺസെഷണൽ പ്രൈസ് കോളത്തിൽ കാണിക്കുക തുടർന്ന് വേരിയബിളിറ്റി ശതമാനത്തെക്കുറിച്ച് ഒരു പട്ടിക നൽകിയിരിക്കുന്നു ഇപ്പോൾ കോസ്റ്റ് സ്ട്രക്ചർ വേരിയബിൾ കോസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നു അതിനാൽ അസംസ്കൃത വസ്തു 90 ശതമാനം പവർ ഇന്ധനം 80 ശതമാനം എന്നിങ്ങനെ നൽകിയിരിക്കുന്നു ഒരു അഡ്മിനെ വിൽക്കുന്നതിന്റെ ബ്രേക്ക്അപ്പും നൽകുന്നു കാരണം മൊത്തം ചിലവിൽ 80 ശതമാനം വിൽപ്പനയാണ് സെല്ലിംഗ് 20 ശതമാനം അഡ്മിൻ ആണ് മാർച്ച് 14 ലെ P L അക്കൌണ്ട് നൽകിയിട്ടുണ്ട് അതിനാൽ മറ്റെല്ലാ ഇനങ്ങളും നേരിട്ട് നൽകുന്നു എന്നാൽ വിൽപ്പനയും അഡ്മിനും ഒരുമിച്ചാണ് നൽകിയിരിക്കുന്നത് ഈ അനുപാതം 80 20 ൽ വീതിക്കണം ബാക്കി ഡാറ്റ ഉപയോഗപ്രദമാണ് അവസാന വരിയിൽ ലക്ഷക്കണക്കിന് മെട്രിക് ടൺ വിൽപ്പനയെക്കുറിച്ച് നിങ്ങളോട് പറയുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ PL അക്കൌണ്ട് എടുക്കുക ഇത് പൂർണ്ണമായ PL അല്ല ലാഭനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു അതിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ ലാഭം കണക്കാക്കുക അതായത് മാർച്ച് 14 തുടർന്ന് രണ്ട് കോളങ്ങൾ 15 നു വേണ്ടി ഉണ്ടാക്കുക ശുഭാപ്തിവിശ്വാസമുള്ളതിന് ഒന്നും അശുഭബ്ദിവിശ്വാസമുള്ളതിന് ഒന്നും തുടർന്ന് ചെലവ് ഘടനയിലെ മാറ്റങ്ങളെ കുറിച്ച് നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും പ്രയോഗിക്കുക അങ്ങനെ മാർച്ച് 15 ലെ പ്രൊജക്ഷനുകൾ ശരിയാക്കുക അതിനു നിങ്ങൾ തയ്യാറാണോ ദയവായി എന്നോടൊപ്പം ഇത് ചെയ്യുക എന്നാൽ സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കായി ഫോർമാറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിനാൽ RM കോസ്റ്റ് 494 പോലെയുള്ള അസംസ്കൃത ഡാറ്റ നൽകിയിരിക്കുന്നത് 2014 ലെ ഡാറ്റയാണ് പ്രവർത്തനച്ചെലവുകൾ വേരിയബിളായും സ്ഥിരമായും വിഭജിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഈ ബ്രേക്ക്അപ്പ് പ്രൊജക്ഷനുകൾ ശരിയാക്കാൻ സഹായകമാകും അതിനാൽ ഈ അഞ്ച് ചെലവുകളും നിങ്ങൾ ബ്രേക്ക് ഡൌൺ ചെയ്യും അപ്പോൾ നിങ്ങൾ ഡിപ്രീസിയേഷൻ എടുക്കും തുടർന്ന് വിൽപ്പന താരതമ്യേനയുള്ള വിൽപ്പനയുടെ ചിലവ് എന്നിവ എടുക്കുക നിങ്ങൾക്ക് പ്രവർത്തന ലാഭം മറ്റ് വരുമാനo പലിശ മുതലായവ ലഭിക്കും തുടർന്ന് 2015 ലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ എന്റെ കുടെയാണോ പരിഹാരം ഓരോന്നായി നോക്കാൻ ശ്രമിക്കാം അതിനാൽ ഇപ്പോൾ RM ന്റെ വേരിയബിൾ ഘടകം നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 90 ശതമാനവും വേരിയബിളായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം ഇത് കഴിഞ്ഞ വർഷത്തെ RM ചെലവാണ് അതിനാൽ ഞങ്ങൾ 90 ശതമാനം കൊണ്ട് ഗുണിച്ചു അത് 858 6 ആയി വരുന്നു ഇപ്പോൾ പ്രൊജക്ഷനൊന്നുമില്ല ഇത് കഴിഞ്ഞ വർഷത്തെ ഡാറ്റയാണ് ഇപ്പോൾ ഈ ഡാറ്റ പ്രൊജക്ഷനുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗപ്രദമാകും ഇപ്പോൾ നിശ്ചിത വില 954 ന്റെ 10 ശതമാനം വരെയാണ് അസംസ്കൃത വസ്തുക്കൾ 90 ശതമാനം വേരിയബിളും 10 ശതമാനം സ്ഥിരവുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഓരോ ഘടകത്തിനും സമാനമായ രീതിയിൽ കണക്കാക്കുക നിങ്ങൾക്ക് ഈ ഷീറ്റിലേക്ക് പോകാം RM നുള്ള വേരിയബിളിറ്റിയുടെ ഈ ശതമാനം 90 ശതമാനവും പവർ 80 ശതമാനവും എംപ്ലോയീ 70 ഉം അതുപോലെ തന്നെ മറ്റു ചിലവുകളും അതിനാൽ വേരിയബിൾ പവർ കോസ്റ്റ് 1103 2 വേരിയബിൾ ഫിക്സഡ് കോസ്റ്റ് 275 8 എംപ്ലോയീസ് കോസ്റ്റ് വേരിയബിൾ 276 ഫിക്സഡ് 118 മറ്റ് നിർമ്മാണച്ചെലവുകൾ ഇവിടെ നൽകിയിട്ടില്ല വേരിയബിലിറ്റി വിൽപ്പനയുടെ ശതമാനം നമുക്ക് കുറയ്ക്കാം ഇതാണ് മറ്റ് നിർമ്മാണ ചിലവുകൾ അതിനാൽ ഇത് സ്ഥിരമാണെന്ന് ഞങ്ങൾ അനുമാനിച്ചു കാരണം അസംസ്കൃത വസ്തുക്കൾ പവർ എന്നിവ പോലെ വേരിയബിൾ ഇനങ്ങളിൽ ഭൂരിഭാഗവും ഇതിനകം അവസാനിച്ചുവെന്ന് നിങ്ങൾ നിരീക്ഷിക്കും അതിനാൽ ഇത് ഒരു നിശ്ചിത ചെലവാകാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ ഇപ്പോൾ ഞങ്ങൾ അത് വിൽപനക്കായി എടുത്തിരിക്കുന്നു വിൽപ്പനയ്ക്കായി നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് വിൽപ്പനയുടെയും അഡ്മിനിൻ്റെയും ചെലവ് ഒരുമിച്ച് 596 നൽകിയിരിക്കുന്നു അവർ വിൽപ്പനയ്ക്ക് 80 ശതമാനവും അഡ്മിന് 20 ശതമാനവും ബ്രേക്ക്അപ്പ് നൽകിയിട്ടുണ്ട് അതിനാൽ ആദ്യം 596 ന്റെ 80 ശതമാനം വിൽപ്പനച്ചെലവായി എടുക്കുക അതിനുശേഷം സെല്ലിങ് എസ്പെൻസിന്റെ 60 ശതമാനം വേരിയബിളിറ്റിയുടെ ശതമാനം ആയി പ്രയോഗിക്കുക അതിനാൽ 596 എന്നത് വിൽപ്പനച്ചെലവ് 0 6 ആയും ഫിക്സഡ് കോസ്ററ് 0 4 ആയും നിശ്ചയിച്ചിരിക്കുന്നു അഡ്മിൻ ചെലവിന് അഡ്മിൻ ചെലവ് 20 ശതമാനം മാത്രമാണ് അതിനാൽ 596 x 0 1 ആയും നിശ്ചിത ഭാഗം 0 2 x 0 9 ആയും നിശ്ചയിച്ചിരിക്കുന്നു ഈ 596 ആകെ S D പ്ലസ് അഡ്മിൻ ആയിരുന്നു അതിനെ ഞങ്ങൾ നാല് ഭാഗങ്ങളായി വിഭജിച്ചു മൂല്യത്തകർച്ച മാറ്റമില്ലാതെ തുടരും അതിനാൽ മൂല്യത്തകർച്ച 550 ആണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ എല്ലാ ഡാറ്റയും നിങ്ങളുടെ പക്കൽ ലഭ്യമാണ് വിൽപ്പനയുടെ ശരിയായ ചെലവ് നിങ്ങൾക്ക് കണക്കാക്കാം അതിനാൽ എനിക്ക് 5065 ലഭിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അത് ബ്രേക്ക് അപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ കണക്കാക്കാൻ കഴിയും എന്നാൽ ബ്രേക്ക്അപ്പ് പ്രൊജക്ഷൻ ആവശ്യങ്ങൾക്ക് സഹായകരമാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് നേരിട്ട് നൽകിയിരിക്കുന്നത് 5887 അതിനാൽ നിങ്ങൾക്ക് പ്രവർത്തന ലാഭം 822 മറ്റ് വരുമാനം 104 അതിനാൽ PBIT 926 ആണ് അതിന് പലിശ ഈടാക്കുക അത് 129 ആണ് അതിനാൽ നികുതിക്ക് മുമ്പുള്ള ലാഭം 797 ആണ് ഈ ഷീറ്റിൽ അവർ നികുതിക്ക് മുമ്പുള്ള ലാഭം നൽകിയിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു അതിനാൽ മൂല്യത്തകർച്ച വരെ എല്ലാ ഇനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ നിന്ന് ഞങ്ങൾ PBT കണക്കാക്കണം നിങ്ങൾക്കും എന്നെപ്പോലെ തന്നെയാണോ ലഭിക്കുന്നത് ഞങ്ങൾ അത് പരിശോധിക്കുന്നു അത് സ്വയം ചെയ്യുക ഇപ്പോൾ ഇവയിൽ നിന്ന് നികുതി ഈടാക്കും തുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 124 ആണ് അതിനാൽ നികുതിക്ക് ശേഷമുള്ള ലാഭം 697 ക്ഷമിക്കണം 673 PBT tax അപ്പോൾ നിങ്ങൾക്ക് നികുതിക്ക് ശേഷമുള്ള ലാഭം ലഭിക്കും തുടർന്ന് അവർ ഇക്വിറ്റി ഡിവിഡന്റ് കോർപ്പറേറ്റ് ഡിവിഡന്റ് പോലുള്ള ചില അധിക വിവരങ്ങൾ നൽകി ഇവ യഥാർത്ഥത്തിൽ കോസ്റ്റ് അക്കൌണ്ടിംഗിന്റെ ഭാഗമല്ല പക്ഷേ ഞങ്ങൾ അത് സൂചിപ്പിക്കും നമുക്ക് റീടൈൻഡ് ഏർണിങ്സ് കണക്കാക്കാം അതിനാൽ ഡിവിഡന്റും ഡിവിഡന്റ് നികുതിയും 90 ഉം റീടൈൻഡ് ഏർണിങ്സ് 583 ഉം ആണ് ഇപ്പോൾ അവർ ഞങ്ങൾക്ക് മൊത്തം വിൽപ്പന മെട്രിക് ടണ്ണിൽ തന്നിട്ടുണ്ട് ഞങ്ങൾ അത് സൂചിപ്പിക്കാം കാരണം ഞങ്ങൾ യൂണിറ്റിന് 124 ലക്ഷം മെട്രിക് ടൺ ചെലവ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു ഒരു യൂണിറ്റിന്റെ വില C 36 ൽ C 22 ആയി കണക്കാക്കി C 22 എന്താണ് മൂല്യത്തകർച്ച ഉൾപ്പെടെയുള്ള വിൽപനച്ചെലവായിരുന്നു ഇത് എന്നാൽ മറ്റ് വരുമാനവും പലിശയും ഉൾപ്പെടുത്താതെ ഈ വിൽപ്പനച്ചെലവ് 5065 ആണ് അത് 124 കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് 4084 ലഭിക്കും ഇത് ഒരു മെട്രിക് ടൺ സിമന്റിന്റെ വിലയാണ് ചിലതരം സിമന്റുകൾ ഉണ്ടാകാം എന്നാൽ നൽകിയിരിക്കുന്ന സാഹചര്യം അനുസരിച്ച് അവർക്ക് 124 ലക്ഷം മെട്രിക് ടൺ ഒരു ഏകീകൃത വിൽപ്പന ഉണ്ടെന്ന് ഞങ്ങൾ അനുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു മെട്രിക് ടണ്ണിന് 4084 എന്ന കണക്ക് ലഭിക്കുന്നു അതിനാലാണ് ഇത് 100 കൊണ്ട് ഗുണിക്കുന്നത് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം മറ്റെല്ലാ കണക്കുകളും കോടികളിലായിരുന്നു കാരണം ലക്ഷക്കണക്കിന് മെട്രിക് ടണ്ണിലാണ് വിൽപ്പന നൽകുന്നത് അതിനാൽ നിങ്ങൾ ഹരിക്കുമ്പോൾ നിങ്ങൾ 100 കൊണ്ട് ഗുണിക്കേണ്ടിവരും അതിനാൽ നിങ്ങൾക്ക് ഒരു മെട്രിക് ടൺ വില 4087 എന്ന് ലഭിക്കും ഇപ്പോൾ ഇവിടെ പ്രൊജക്ഷനായി പോകുന്നതിന് മുമ്പ് നിങ്ങൾ കൺസെഷണൽ സെല്ലിങ് പ്രൈസ് കണക്കാക്കേണ്ടതുണ്ട് സാധാരണ വിൽപ്പന വില ഇളവുള്ള വിൽപ്പന വില എന്നിവ കണക്കാക്കേണ്ടതുണ്ടെന്ന് കരുതുക നിങ്ങൾ അത് എങ്ങനെ ചെയ്യും വിൽപ്പന വില കണക്കാക്കുന്നതിനുള്ള ചട്ടം അനുസരിച്ച് മാനേജ്മെന്റ് വിൽപ്പന ചെലവിൽ 20 ശതമാനം മാർജിൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സാധാരണ വിൽപ്പന വിലയും കൺസെഷണൽ വില്പന വിലയും കണക്കാക്കുന്നത് സാധാരണ വിൽപ്പന വില എന്തായിരിക്കുമെന്ന് നമുക്ക് സാങ്കൽപ്പികമായി നോക്കാം ഒരു യൂണിറ്റിന് അവരുടെ വില ഇപ്പോൾ ഞങ്ങൾക്കറിയാം അതുപയോഗിച്ചു അവർ ചോദിക്കുന്നതോ അവർ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നതോ ആയ ചെലവിന്റെ 20 ശതമാനം മാർജിൻ നിങ്ങൾക്ക് കണക്കാക്കാം അപ്പോൾ 4087 ലേക്ക് 1 2 ആകുമോ സാധാരണ വിൽപ്പന വില ലഭിക്കുന്നത് നൽകിയിരിക്കുന്ന ഡാറ്റയ്ക്കായി പോലും ഞങ്ങൾ അടുത്ത വർഷത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല സാധാരണ വിൽപ്പന വില കണക്കാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു കൺസെഷണൽ വിൽപ്പന വില എത്രയാകും കാരണം സാധാരണവും ഇളവുള്ളതുമായ വിൽപന വിലയിൽ നൽകിയിരിക്കുന്ന കേസ് ഉപദേശം അനുസരിച്ച് ഞങ്ങൾ പ്രത്യേക വിലനിർണ്ണയത്തിലോ സർക്കാർ കരാറുകളിലോ സാധാരണ വിപണിയെ ബാധിക്കാത്ത കരാറുകളിലോ ചില കേസുകൾ നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അത്തരം കേസുകൾ വിപണിയെ ബാധിക്കാത്തതാണ് അതിനാൽ സാധാരണയായി ഇവിടെ നിങ്ങൾ വിൽപ്പനയുടെ വേരിയബിൾ ചിലവും കുറച്ച് ലാഭ മാർജിനും എടുത്താണ് വില്പന നടത്തുന്നത് ഇപ്പോൾ ഇവിടെ വേരിയബിൾ കോസ്റ്റ് നൽകിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വാരിയബിളും ഫിക്സഡും ആയി ബ്രേക്ക് അപ്പ് വന്നിരിക്കുന്നു അതിനാൽ ആദ്യം വിൽപ്പനയുടെ മൊത്തം വേരിയബിൾ ചെലവ് കണക്കാക്കുക അതായത് 2536 ഏത് ഘടകങ്ങളാണ് എടുത്തതെന്ന് പരിശോധിക്കുക 5 8 11 15 18 അതിനാൽ നിങ്ങൾക്ക് മുകളിലേക്ക് പോകാം 5 8 അസംസ്കൃത വസ്തുക്കളുടെ വേരിയബിൾ ഭാഗമാണ് തുടർന്ന് 11 15 18 പവർ ഇന്ധനം എന്നിവയുടെ വേരിയബിൾ ഭാഗമാണ് നിങ്ങൾക്ക് ഈ കണക്ക് ലഭിക്കുന്നുണ്ടോ 5 8 11 15 ഉം 18 ഉം ഞങ്ങൾ പലവിധ നിർമ്മാണച്ചെലവുകൾ എടുത്തിട്ടില്ല കാരണം അവയെല്ലാം ഫിക്സഡ് ചിലവുകളാണ് എന്ന് ഞങ്ങൾ കരുതി ഇപ്പോൾ ഈ വേരിയബിൾ വിൽപനച്ചെലവിന്റെ അടിസ്ഥാനത്തിൽ ഇളവുള്ള വിൽപ്പന വില കണക്കാക്കാൻ ശ്രമിക്കുക അതിനാൽ ഇളവുള്ള വിൽപ്പന വില എത്രയായിരിക്കും അവരുടെ മാനദണ്ഡമനുസരിച്ച് അവരുടെ വിൽപ്പനച്ചെലവിൽ 20 ശതമാനം അവർ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇളവുള്ള വിലയുടെ കാര്യത്തിൽ ഇത് വിൽപ്പനയുടെ വേരിയബിൾ കോസ്റ്റിൽ 20 ശതമാനമായിരിക്കും അതിനാൽ C 42 x 1 2 ആയി 3043 ആയിരിക്കും സാധാരണ വിൽപന വില 4901 ആയിരിക്കും ഇളവുള്ളതിനു സ്ഥിരമായ ചിലവ് ഈടാക്കുന്നില്ല എന്നാൽ നാമമാത്രമായ ലാഭം 20 ശതമാനം ഈടാക്കുന്നു അതിനാൽ അത് 3043 ആണ് അതിനാൽ ഈ ചോദ്യമനുസരിച്ച് 2015 ലേക്ക് കണക്കാക്കാൻ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാൽ ആദ്യം ഞങ്ങൾ അത് 2014 ന് ചെയ്തു ഇപ്പോൾ ഒരു ലക്ഷം മെട്രിക് ടണ്ണിന് 124 എന്ന നിരക്കിലുള്ള വിൽപന കണക്കാക്കിയാൽ ഇത് മൊത്തം കോടികളുടെ കണക്കുകളായിരുന്നു ഒരു യൂണിറ്റ് വില 746 ആയിരിക്കും അതിനാൽ 20 ശതമാനം ഇളവ് വില ഒരു മെട്രിക് ടണ്ണിന് 896 ആണ് ഇതാണ് അന്തിമ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഈ 746 എങ്ങനെയാണ് കണക്കാക്കുന്നത് ഇത് 29 43 ആണെന്ന് നിരീക്ഷിക്കുക അത് 29 ആയിരിക്കും അതെ 43 ഇതാണ് അത് 42 43 ആയിരിക്കണം ഞാൻ ഇവിടെ ഒരു മാറ്റം വരുത്തും നിങ്ങൾക്ക് അത് മനസ്സിലായോ 42 എന്നത് ഒരു വേരിയബിൾ വിൽപനച്ചെലവായിരുന്നു കൂടുതൽ വ്യക്തതയ്ക്കായി ഞാൻ ഇത് ഇവിടെ വ്യക്തമാക്കുന്നു ഒരു യൂണിറ്റിന് വില 2045 ആയിരിക്കും ഇത് യൂണിറ്റിന് വേരിയബിൾ വിലയാണെന്നും ഇളവ് വിൽപന വില C 44 x 1 2 വരെയാണ് അല്ലാത്തപക്ഷം നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകുമെന്നതിനാൽ ഞാൻ ഇത് ഇല്ലാതാക്കുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഇപ്പോൾ സാധാരണ വിൽപ്പന വില ഇതാണ് ഇളവുള്ള വിൽപ്പന വില വളരെ കുറവാണ് ഈ വർഷം ഇത് 2454 ആണ് നിങ്ങൾക്കെല്ലാവർക്കും ഇത് ലഭിച്ചിട്ടുണ്ടോ ഇനി നമുക്ക് പ്രൊജക്ഷനിലേക്ക് പോകാം ഇപ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ വേരിയബിൾ വില നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എങ്ങനെയാണ് ശുഭാപ്തിവിശ്വാസമുള്ള പ്രൊജക്ഷൻ ഉണ്ടാക്കുക ഒപ്ടിമിസ്റ്റിക് പ്രൊജക്ഷൻ കാണുക 1 15 x 1 ഞങ്ങൾ വീണ്ടും കേസിലേക്ക് പോകും അത് വളരെ വ്യക്തമായി നൽകിയിരിക്കുന്നു അസംസ്കൃത വസ്തുക്കളുടെ വിലയുടെ വിഭാഗത്തിലേക്ക് പോയാൽ പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് 10 മുതൽ 15 ശതമാനം വരെയാണ് അപ്പോൾ പെസിമിസ്റ്റിക് 10 ഒപ്ടിമിസ്റ്റിക് 15 ആണ് അപ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ വർദ്ധനവ് എത്ര ശതമാനം അവർ എന്തെങ്കിലും സൂചന നൽകിയിട്ടുണ്ടോ നോക്കൂ പ്രവർത്തനച്ചെലവ് 10 മുതൽ 12 ശതമാനം വരെ വളരാൻ സാധ്യതയുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ വിലയുടെ കാര്യമോ ജീവനക്കാരുടെ ചെലവ് ഒഴികെ മറ്റെല്ലാം 10 മുതൽ 12 ശതമാനം വരെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ അസംസ്കൃത വസ്തുക്കളുടെ വിലയും 10 മുതൽ 12 ശതമാനം വരെ വർദ്ധിക്കാൻ പോകുന്നു ഇത് ഒരു ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾ 15 ശതമാനം വളർച്ച പരിഗണിക്കാൻ പോകുന്നു അത് വോളിയത്തിന്റെ വളർച്ചയാണ് അത് ഉയർന്ന വശമാണ് എന്നാൽ വിലയുടെ താഴ്ന്ന വശത്തിന്റെ വളർച്ച അസംസ്കൃത വസ്തുക്കളുടെ വിലയാണ് അതിനാൽ അത് നിങ്ങൾക്ക് 1086 ലഭിക്കുന്നു ഇപ്പോൾ ഫിക്സഡ് ഘടകത്തിന് ഞങ്ങൾ 10 ശതമാനം വർദ്ധനവ് പരിഗണിക്കും അത് 104 ആണ് ഇപ്പോൾ നിങ്ങൾ പെസിമിസ്റ്റിക്കിനായി കണക്കാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പെസിമിസ്റ്റിക്കിന് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക കുറഞ്ഞ വളർച്ചാ നിരക്ക് 10 ശതമാനം മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനാൽ അത് 1 1 ആണ് എന്നാൽ 12 ശതമാനം ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യത അസംസ്കൃത വസ്തുക്കളുടെ വിലയിലാണ് അതിനുള്ള ചെലവ് 10 ശതമാനത്തിൽ നിന്ന് 12 ശതമാനമായി വർദ്ധിക്കും ചെലവിൽ 12 ശതമാനം വർധനവുണ്ടായപ്പോൾ വോളിയത്തിൽ 10 ശതമാനം മാത്രം വർധനയുണ്ടായി എന്ന് കാണാം അതിനാൽ ഇത് 1097 ആണ് ഫിക്സഡ് കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വോളിയത്തെ ബാധിക്കില്ല ചെലവിൽ 12 ശതമാനം വർദ്ധനവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സമയത്തിന്റെ താൽപ്പര്യം കണക്കിലെടുത്ത് ഞാൻ കുറച്ച് വേഗത്തിൽ പോകുന്നു ഇപ്പോൾ വൈദ്യുതിയും ഇന്ധനവും ഇവിടെ വേരിയബിളാണ് അതിനാൽ ഇത് 15 ശതമാനവും 11 ശതമാനവും വർദ്ധിപ്പിച്ചു 10 ശതമാനം അതായത് 1 10 എന്നാൽ അശുഭാപ്തി കണക്കുകൂട്ടലിനായി സ്ഥിരമായ ചെലവ് ഞങ്ങൾ 1 12 എടുക്കും സ്ഥിരമായ ചിലവ് മാറുന്നത് വോളിയവുമായി യാതൊരു ബന്ധവുമില്ല അതിനു കാരണം ചിലവിൽ മാറ്റമുണ്ടാകുന്നതാണ് അതിനാൽ ഇത് ഒന്നുകിൽ 10 ശതമാനം അല്ലെങ്കിൽ 12 ശതമാനം വർദ്ധിക്കും അതായത് 1 1 ആയും പെസിമിസ്റ്റിക്കിന്റെ 1 12 ആയും കൂടുന്നു നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ ജീവനക്കാരുടെ ചെലവിനും ഇതേ അനുപാതം പ്രയോഗിക്കുക എന്നാൽ ജീവനക്കാരുടെ ചെലവ് 15 ശതമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ ഓർമിക്കുക അതിനാൽ ശുഭാപ്തിവിശ്വാസം കണക്കിലെടുത്താൽ ഇത് 1 15 X 1 15 ആണ് അശുഭാപ്തിവിശ്വാസം കണക്കിലെടുത്താൽ ഇത് 1 1 X 1 15 ആണ് കാരണം ഇത് ഏത് സാഹചര്യത്തിലും 15 ശതമാനം വർദ്ധിക്കും ജീവനക്കാരുടെ ഫിക്സഡ് ഭാഗത്തിന്റെ കാര്യത്തിലായാലും രണ്ട് കേസുകളിലും ഇത് 15 ശതമാനം വർദ്ധനവാണ് മറ്റ് നിർമ്മാണച്ചെലവുകൾ അത് 10 ശതമാനമോ 12 ശതമാനമോ ആയി ഉയരും കാരണം മറ്റെല്ലാ ചെലവുകളും അവ ഫിക്സഡ് സ്വഭാവമുള്ളതായാലും 10 അല്ലെങ്കിൽ 12 ആയി ഉയരും അതിനാൽ ഒരു ഘടകവും വേരിയബിൾ അല്ല ഇപ്പോൾ S D വേരിയബിൾ ഭാഗത്തേക്ക് പോകുമ്പോൾ അതേ നിയമം 1 15 X 1 1 ഉം 1 12 ഉം ബാധകമാണ് ഫിക്സഡ് പാർട്ടിന് വേണ്ടി 1 1 X 1 12 കണക്കാക്കുന്നു നിങ്ങൾക്ക് എന്നെ മനസിലാകുന്നുണ്ടോ വേരിയബിൾ ഭാഗത്തിനും ഇതേ നിയമം ബാധകമാണ് ഞാൻ കുറച്ച് വേഗത്തിൽ പോകും ദയവായി ഇത് പരിശോധിക്കുക നൽകിയിരിക്കുന്ന വിവരങ്ങൾ മൂല്യത്തകർച്ചയുടെ കാര്യത്തിലും വ്യത്യാസമില്ല അതിനാൽ ഞങ്ങൾ അതേ കണക്കുകളിൽ തുടരും ഇപ്പോൾ എല്ലാ വിവരങ്ങൾക്കും ശുഭാപ്തിവിശ്വാസവും അശുഭാപ്തിവിശ്വാസവുമുള്ള ഡാറ്റ നിങ്ങൾക്ക് ലഭിച്ചു ദയവായി മൊത്തം പരിശോധിക്കുക ആകെ വിൽപ്പനയുടെ ചിലവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ശുഭാപ്തിവിശ്വാസം 5956 അശുഭാപ്തിവിശ്വാസം 5903 ആണ് 15 ശതമാനം അശുഭാപ്തിവിശ്വാസപരമായ വിൽപ്പന വളർച്ചയ്ക്ക് 10 ശതമാനം ശുഭാപ്തിവിശ്വാസമുള്ള വിൽപ്പന വളർച്ച ഇപ്പോൾ പ്രവർത്തന ലാഭം എന്നത് വില്പനയിൽ നിന്ന് വിൽപ്പനയുടെ ചെലവ് കുറക്കുന്നതാണ് അതിനാൽ നിങ്ങൾക്ക് 1490 ഉം 1219 ഉം ലഭിക്കുന്നു മറ്റ് വരുമാനം PBIT യുടെ അതേ കണക്കാണ് അതായത് 1594 ഉം 1323 ഉം ആണ് പലിശയിൽ മാറ്റമില്ല 129 അതിനാൽ നിങ്ങൾക്ക് PBT കണക്കാക്കാം അത് 1465 അല്ലെങ്കിൽ 1194 എങ്ങനെയാണ് നിങ്ങൾ നികുതി കണക്കാക്കുക മുൻവർഷത്തെ അതേ സാഹചര്യം ഞങ്ങൾ പ്രയോഗിക്കും എന്നാൽ അതിന് നികുതി നിരക്ക് കണക്കാക്കുന്നതാണ് നല്ലത് അതിനാൽ ഞങ്ങൾ ഇവിടെ മുൻവർഷത്തെ നികുതി നിരക്ക് കണക്കാക്കി അത് C 32 ന് C 31 ആണ് നിങ്ങൾക്ക് അത് 15 ശതമാനമായി ലഭിക്കും ഇപ്പോൾ ശുഭാപ്തിവിശ്വാസവും അശുഭാപ്തിവിശ്വാസവും ഉള്ള സാഹചര്യത്തിൽ 15 ശതമാനം ഈടാക്കിയിട്ടുണ്ട് പാറ്റ് ഇക്വിറ്റി ഡിവിഡന്റ് റീടൈൻഡ് എർണിങ്സ് മറ്റും പോലെ ഉള്ള കണക്കുകൾക്ക് മാറ്റമില്ല ഇപ്പോൾ ക്വാണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ വിൽപ്പന നോക്കുക ശുഭാപ്തിവിശ്വാസികൾക്ക് 15 ശതമാനം വർദ്ധനവ് അശുഭാപ്തിവിശ്വാസികൾക്ക് വിൽപ്പന 10 ശതമാനം വർദ്ധിക്കുന്നു ഇത് ശുഭാപ്തിവിശ്വാസികൾക്കും അശുഭാപ്തിവിശ്വാസികൾക്കും ഒരു യൂണിറ്റിന്റെ വിലയാണ് ഇപ്പോൾ സാധാരണ ശുഭാപ്തിവിശ്വാസികളുടെ വിൽപ്പന വില 5012 ആയിരിക്കും അശുഭാപ്തിവിശ്വാസികൾക്ക് 5093 ആയിരിക്കും ഇത് എങ്ങനെ കണക്കാക്കാമെന്ന് നിങ്ങൾക്കറിയാമോ ഞങ്ങൾക്ക് യൂണിറ്റിന് ചിലവ് ലഭിക്കുകയും 20 ശതമാനം കൂട്ടുകയും ചെയ്യുന്നു ഇളവുകൾക്കായി നിങ്ങൾ ആദ്യം വേരിയബിൾ ചെലവ് കണക്കാക്കേണ്ടതുണ്ട് ഇപ്പോൾ വേരിയബിൾ ചെലവ് മൊത്തം എടുക്കും നിങ്ങൾക്ക് വിൽപ്പന ക്വാണ്ടം അറിയാം യൂണിറ്റിന് വേരിയബിൾ ചെലവ് കണക്കാക്കുക 20 ശതമാനം കൂട്ടുക ഇത് ഞങ്ങൾക്ക് ഇളവുള്ള വില നൽകുന്നു നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാം വ്യക്ത മാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ സോൾവ് ചെയ്യുന്നപോലെ ദയവായി അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഞാൻ ചെയ്തതെന്തും നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം അതിനാൽ ഇത് ഇവിടെ നിർത്തും നമസ്തേ